അതിനാൽ ഒരു പ്രശ്നത്തിനായി ഞങ്ങൾ ഒരു അൽഗോരിതം രൂപകൽപ്പന ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പ്രശ്നത്തിന്റെ വിവരങ്ങൾ പ്രതിനിധീകരിക്കേണ്ടതുണ്ട് അതിനാൽ ഇതിനെ മോഡലിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ പ്രോപ്പർട്ടി മാതൃകയാക്കാൻ ഞങ്ങൾക്ക് ചിലതരം നൊട്ടേഷനും ഘടനയും ആവശ്യമാണ് അതിനാൽ ഈ മൊഡ്യൂളിൽ ഗ്രാഫുകൾ എന്ന് വിളിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടനയെ ഞങ്ങൾ പരിശോധിക്കും അവ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വളരെയധികം ഉപയോഗപ്രദമാണ് അതിനാൽ ഒരു രാഷ്ട്രീയ ഭൂപടം കളർ ചെയ്യുന്ന പ്രശ്നവുമായി നമുക്ക് ആരംഭിക്കാം അതിനാൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്ത നിറങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ ഒരു മാപ്പ് ഇതാ ഇപ്പോൾ ഈ കളറിംഗിന് പിന്നിലെ തത്വം എന്താണ് നമ്മൾ ഒരു സംസ്ഥാനത്തിന് നിറം നൽകുമ്പോൾ അതിനോട് ചേർന്നുള്ള ഒരു സംസ്ഥാനത്തിനും ഒരേ നിറമില്ലെന്ന് ഉറപ്പുവരുത്തണം ഒരു പൊതു അതിർത്തി പങ്കിടുന്ന വശങ്ങളുള്ള രണ്ട് സംസ്ഥാനങ്ങൾക്കും ഒരേ നിറം ഉണ്ടാകരുത് അല്ലാത്തപക്ഷം നമുക്ക് ഒന്ന് വേർതിരിച്ചറിയാൻ പ്രയാസമാണ് മറ്റൊന്നിൽ നിന്ന് പ്രസ്താവിക്കുക അതിനാൽ രാജസ്ഥാനിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് വ്യത്യസ്തമായ നിറമുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം ഈ സമയത്ത് രാജസ്ഥാനും ഗുജറാത്തും ഒരു പൊതു അതിർത്തി പങ്കിടുന്നു അതുപോലെ രാജസ്ഥാനിനും മധ്യപ്രദേശിനും ഒരു അതിർത്തിയുണ്ട് അതിനാൽ രാജസ്ഥാനിനും മധ്യപ്രദേശിനും വ്യത്യസ്ത നിറങ്ങളുണ്ട് മറുവശത്ത് രാജസ്ഥാനും തെലങ്കാനയും ഒരു അതിർത്തി പങ്കിടുന്നില്ല അതിനാൽ ഞങ്ങൾക്ക് കഴിയും രാജസ്ഥാനിനും തെലങ്കാനയ്ക്കും ഒരേ നിറം ഉപയോഗിക്കുക അതിനാൽ ഞങ്ങൾ ചോദിച്ചേക്കാവുന്ന ചോദ്യത്തിന് അത്തരമൊരു മാപ്പ് നൽകിയിട്ടുണ്ട് ഈ മാനദണ്ഡം പാലിക്കുന്നതിന് നമുക്ക് എത്ര നിറങ്ങൾ നൽകണം ഇപ്പോൾ വ്യക്തമായി നമുക്ക് ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്ത നിറം നൽകാം അതിനാൽ പൊതുവായി അതിർത്തിയില്ലാത്ത രണ്ട് സംസ്ഥാനങ്ങളില്ലെന്ന് ഉറപ്പാക്കാൻ കഴിയും വാസ്തവത്തിൽ മാപ്പിൽ എവിടെയും രണ്ട് സംസ്ഥാനങ്ങൾക്കും ഒരേ നിറമില്ല പക്ഷേ പല സാഹചര്യങ്ങളിലും പല നിറങ്ങളേക്കാൾ വളരെ കുറച്ച് മാത്രമേ ചെയ്യാനാകൂ എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാം അതിനാൽ നമുക്ക് എത്ര നിറങ്ങൾ ആവശ്യമാണ് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം അതിനാൽ ഈ പ്രശ്നത്തെ കൂടുതൽ അമൂർത്തമായി പ്രതിനിധീകരിക്കുന്നതിനുള്ള മാർഗം ഇതാ അതിനാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഞങ്ങൾ മാറ്റിസ്ഥാപിക്കുക എന്നതാണ് പകരം വയ്ക്കില്ല മാപ്പിലെ ഓരോ സംസ്ഥാനത്തിനും ഞങ്ങൾ ഒരു കറുത്ത ഡോട്ട് നൽകുന്നു അതിനാൽ ഏകദേശം സംസ്ഥാനം സംസ്ഥാനത്തിന്റെ കേന്ദ്രം എവിടെയാണ് ഞങ്ങൾ ഈ കറുത്ത ഡോട്ട് സ്ഥാപിക്കുന്നത് ഇപ്പോൾ സംസ്ഥാനങ്ങൾ എങ്ങനെ പരസ്പരം അയൽവാസികളാണെന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തണം അതിനാൽ ഞങ്ങൾ ചെയ്യുന്നത് അതിർത്തി പങ്കിടുന്ന എല്ലാ ജോഡി സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിക്കുക എന്നതാണ് അതിനാൽ രാജസ്ഥാനും ഗുജറാത്തിനും പൊതുവായി ഒരു അതിർത്തിയുണ്ട് അതിർത്തിയാണ് അതിനാൽ ഞങ്ങൾ രാജസ്ഥാനും ഗുജറാത്തും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു വശം സ്ഥാപിച്ചു ഞാൻ വെറും അടയാളമാണ് ഇപ്പോൾ ഞങ്ങളുടെ കളറിംഗ് പ്രശ്നം സംസ്ഥാനങ്ങൾക്ക് നിറങ്ങൾ നൽകുക എന്നതാണ് അതിനാൽ ഒരു അരികിന്റെ വിപരീത വലുപ്പത്തിലുള്ള ഒരു എഡ്ജ് പങ്കിടുന്ന രണ്ട് സംസ്ഥാനങ്ങൾക്കും ഒരേ നിറമില്ല അതിനാൽ സംസ്ഥാനവുമായി വർണ്ണിക്കുന്നത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഡോട്ടിന് നിറം നൽകുന്നതിന് തുല്യമാണ് അതിനാൽ നമുക്ക് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനം ഉപയോഗിച്ച് ആരംഭിച്ച് ചുവപ്പ് നിറം നൽകാം ഇപ്പോൾ ഇത് ചുവപ്പാണ് അതിനർത്ഥം അതിനടുത്തുള്ള സംസ്ഥാനങ്ങളായ ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ ഹരിയാന അല്ലെങ്കിൽ രാജസ്ഥാൻ അല്ലെങ്കിൽ മധ്യപ്രദേശ് അല്ലെങ്കിൽ ഛത്തീസ്ഗ h ് അല്ലെങ്കിൽ har ാർഖണ്ഡ് അല്ലെങ്കിൽ ബീഹാർ ഇതൊന്നുമല്ല ഇപ്പോൾ ചുവപ്പ് നിറം നൽകാം കാരണം അവയെല്ലാം അയൽ സംസ്ഥാനങ്ങളാണ് അതിനാൽ അടുത്ത ഘട്ടത്തിൽ ചുവപ്പ് നിറമുള്ള ഉത്തർപ്രദേശ് വ്യത്യസ്ത നിറങ്ങളുള്ള ഹരിയാനയെ ഞങ്ങൾ ഇപ്പോൾ നിറമുള്ളതായി പറയുന്നു നീലയും ഉത്തരാഖണ്ഡും ഹരിയാനയുമായും ഉത്തർപ്രദേശുമായും പൊതുവായ അതിർത്തിയാണ് ഇപ്പോൾ പച്ച നിറത്തിലുള്ളത് അതിനാൽ ഞങ്ങൾ മൂന്ന് നിറങ്ങൾ ഉപയോഗിച്ചു ഞങ്ങൾ രാജസ്ഥാനുമായി മുന്നോട്ട് പോയാൽ രാജസ്ഥാൻ ഉത്തരാഖണ്ഡുമായി ഒരു അതിർത്തി പങ്കിടുന്നില്ലെന്ന് നമുക്ക് കാണാം അതിനാൽ പച്ച നിറം വീണ്ടും ഉപയോഗിക്കാൻ കഴിയും അതിനാൽ ഞങ്ങൾ മൂന്ന് നിറങ്ങളിൽ പറ്റിനിൽക്കുന്നു നമുക്ക് ആ കളറിംഗ് രാജസ്ഥാനിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയും പിന്നെ ഞങ്ങൾ പഞ്ചാബിലേക്ക് ഇപ്പോൾ പഞ്ചാബിനെ ഉത്തർപ്രദേശുമായി ബന്ധിപ്പിച്ചിട്ടില്ല അതിനാൽ ഉത്തർപ്രദേശിന്റെ ചുവന്ന നിറം പഞ്ചാബിനായി വീണ്ടും ഉപയോഗിക്കാം എന്നിരുന്നാലും ഞങ്ങൾ ഹിമാചൽ പ്രദേശിലേക്ക് വരാം ഹിമാചൽ പ്രദേശ് പഞ്ചാബുമായും ഹരിയാനയുമായും ഉത്തരാഖണ്ഡുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ ഞങ്ങൾ ഇതിനകം ഈ മൂന്ന് നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഹിമാചൽ പ്രദേശിനായി നാലാമത്തെ നിറം ഉപയോഗിക്കണം അതിനാൽ നിങ്ങൾ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ ഈ പ്രത്യേക സ്വത്ത് തൃപ്തിപ്പെടുത്തുന്ന രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഞങ്ങൾക്ക് ഒടുവിൽ നിറങ്ങൾ നൽകാം ഞാൻ രണ്ട് ഡോട്ടുകൾ കാണുമ്പോഴെല്ലാം അവ ഒരു വരിയിലൂടെ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഡോട്ടുകളും വ്യത്യസ്ത നിറങ്ങളാണ് ഇത് ഒരു സാധാരണ അതിർത്തിയിലുള്ള ഏതെങ്കിലും രണ്ട് സംസ്ഥാനങ്ങൾ മാപ്പിൽ വ്യത്യസ്ത നിറങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വത്ത് അമൂർത്തമായി പിടിച്ചെടുക്കുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഈ മാപ്പ് കളറിംഗ് പ്രശ്നം നോക്കുകയാണെങ്കിൽ യഥാർത്ഥ ഡോട്ട് ഈ ഡോട്ടിന് അടിവരയിടുന്നത് ഇപ്പോൾ ആവശ്യമില്ല കാരണം ഡോട്ടുകൾ മാപ്പിനെക്കുറിച്ചുള്ള എല്ലാം പിടിച്ചെടുത്തു അതിനാൽ നമുക്ക് യഥാർത്ഥത്തിൽ അടിവരയിട്ട ചിത്രം വലിച്ചെറിയാൻ കഴിയും ഞാൻ ഈ ഡോട്ടുകളുടെ പാറ്റേണും അവ തമ്മിലുള്ള കണക്ഷനുകളും സൂക്ഷിക്കുകയാണ് കൂടാതെ നിങ്ങൾ ഈ ഡോട്ടുകൾക്ക് നിറങ്ങൾ നൽകുകയാണെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വരികൾ പൊതു അതിരുകളെ പ്രതിനിധീകരിക്കുന്നു യഥാർത്ഥ മാപ്പ് കളറിംഗ് പ്രോപ്പർട്ടി പരിഹരിക്കുന്നതിന് സമാനമായ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള ഒരു ഡയഗ്രം ഇതിനെ ഞങ്ങൾ ഒരു ഗ്രാഫ് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ ഡോട്ടുകളെ വെർട്ടീസുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഇവ വെർട്ടീസുകളാണ് അവയെ നോഡുകൾ എന്നും വിളിക്കുന്നു അതിനാൽ ഇത് വിവരിക്കാൻ രണ്ട് പദങ്ങളുണ്ട് നോഡുകളും വെർട്ടീസുകളും വെർട്ടെക്സിന്റെ ബഹുവചനത്തെ ലംബമാക്കുന്നു ശീർഷകം ഒരു നോഡാണ് പല നോഡുകളെയും വെർട്ടീസുകൾ എന്നും ഈ കണക്ഷനുകൾ അരികുകളാണെന്നും അറിയുന്നത് ഉപയോഗപ്രദമാണ് അതിനാൽ വെർട്ടീസുകൾക്കിടയിൽ ഞങ്ങൾക്ക് അരികുകളുണ്ട് അതിനാൽ ഇത് വളരെ ലളിതമാണ് ഒരു ഗ്രാഫ് ഒരു ചിത്രം മാത്രമാണ് അതിൽ ലംബങ്ങളുടെ നോഡുകളായ ചില ഡോട്ടുകളും അവയ്ക്കിടയിലുള്ള ചില കണക്ഷനുകളും അരികുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഞങ്ങൾ പരിഹരിച്ച പ്രശ്നത്തെ ഗ്രാഫ് കളറിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ ഞങ്ങൾ നാല് നിറങ്ങൾ ഉപയോഗിച്ചു ഞങ്ങൾ നാല് നിറങ്ങൾ ഉപയോഗിച്ചുവെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും ഞങ്ങൾ നീല പച്ച ചുവപ്പ് മഞ്ഞ എന്നിവ ഉപയോഗിച്ചു കൂടാതെ ഈ നാല് നിറങ്ങളുപയോഗിച്ച് ഈ ഗ്രാഫിനെ മുഴുവൻ വർണ്ണിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇപ്പോൾ ഇത് ഈ ഗ്രാഫിന്റെ സ്വത്താണോ അതോ എല്ലാ ഗ്രാഫിന്റെയും സ്വത്താണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം അതിനാൽ വാസ്തവത്തിൽ ഞങ്ങൾ വരച്ച തരത്തിലുള്ള ഏതെങ്കിലും മാപ്പ് നിങ്ങൾ എടുക്കുകയും ഞങ്ങൾ ചെയ്തതു പോലെ ഒരു ഗ്രാഫിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്താൽ നാല് നിറങ്ങൾ എല്ലായ്പ്പോഴും മതിയാകും ഇപ്പോൾ ഇത് ഗ്രാഫിനെക്കുറിച്ചുള്ള ഒരു ഗണിതശാസ്ത്ര വസ്തുതയാണ് അതിനാൽ ഒരു പ്രത്യേക മാപ്പ് കളർ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രശ്നം എടുക്കാം തുടർന്ന് ഇത്തരത്തിലുള്ള എല്ലാ മാപ്പുകളെക്കുറിച്ചും ഞങ്ങൾക്ക് ഒരു പൊതു ചോദ്യം ചോദിക്കാം മാത്രമല്ല ഇതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സിദ്ധാന്തത്തെക്കുറിച്ചോ ഒരു ഗണിതശാസ്ത്രപരമായ വസ്തുത തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഏത് മാപ്പിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഇത്തരത്തിലുള്ള എയിൽ നിന്ന് ഏത് ഗ്രാഫുകളും ഇത്തരത്തിലുള്ള മാപ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണോ ഗ്രാഫ് കളറിംഗ് പ്രോപ്പർട്ടി പരിഹരിക്കാൻ നാല് നിറങ്ങൾ മതി ഇപ്പോൾ ഇത് പരിഹരിക്കാനുള്ള എളുപ്പമുള്ള പ്രശ്നമല്ല ഇത് വർഷങ്ങളായി ഒരു തുറന്ന പ്രശ്നമായിരുന്നു ഇത് യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ടപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു പ്രമേയമാണ് ഇപ്പോൾ ഞങ്ങളുടെ ഗ്രാഫ് ഉപയോഗിച്ച് നാല് നിറങ്ങളുള്ള ഈ മാപ്പിന്റെ ഒരു കളറിംഗ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആരംഭിച്ച യഥാർത്ഥ മാപ്പിന് നിരവധി നാല് നിറങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ ഞങ്ങൾക്ക് ഇത് ഉണ്ട് നിങ്ങൾ ചുറ്റും നോക്കുകയാണെങ്കിൽ ഈ മാപ്പിൽ 1 2 3 4 എന്നിട്ട് 5 കുറഞ്ഞത് അഞ്ച് നിറങ്ങളെങ്കിലും നിങ്ങൾ കണ്ടെത്തും 6 നിങ്ങൾ ഈ വെള്ളയും മറ്റും ഉൾപ്പെടുത്തിയാൽ അതിനാൽ നമുക്ക് നാല് നിറങ്ങൾ ഉപയോഗിക്കാമെന്ന പ്രമേയമുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ മാപ്പിന് നിറം നൽകിയ വ്യക്തി നാലിൽ കൂടുതൽ നിറങ്ങൾ ഉപയോഗിച്ചു ഇപ്പോൾ ഞങ്ങളുടെ ഗ്രാഫ് ഉപയോഗിച്ച് നാല് നിറങ്ങളുള്ള ഈ മാപ്പിന്റെ ഒരു കളറിംഗ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആരംഭിച്ച യഥാർത്ഥ മാപ്പിന് നിരവധി നാല് നിറങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ ഞങ്ങൾക്ക് ഇത് ഉണ്ട് നിങ്ങൾ ചുറ്റും നോക്കുകയാണെങ്കിൽ ഈ മാപ്പിൽ 1 2 3 4 എന്നിട്ട് 5 കുറഞ്ഞത് അഞ്ച് നിറങ്ങളെങ്കിലും നിങ്ങൾ കണ്ടെത്തും 6 നിങ്ങൾ ഈ വെള്ളയും മറ്റും ഉൾപ്പെടുത്തിയാൽ അതിനാൽ നമുക്ക് നാല് നിറങ്ങൾ ഉപയോഗിക്കാമെന്ന പ്രമേയമുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ മാപ്പിന് നിറം നൽകിയ വ്യക്തി നാലിൽ കൂടുതൽ നിറങ്ങൾ ഉപയോഗിച്ചു അതിനാൽ ഒരു ഗ്രാഫ് പോലുള്ള ഞങ്ങളുടെ പ്രാതിനിധ്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഒരു ഗുണം പ്രശ്നത്തിന്റെ അവശ്യ സവിശേഷതകളെല്ലാം ഞങ്ങൾ വലിച്ചെറിഞ്ഞു എന്നതാണ് ഈ അവസ്ഥയുടെ ആകൃതി ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല അത് അറിയേണ്ടതില്ല വലുപ്പം ഏത് സംസ്ഥാനവുമായി ഏത് സംസ്ഥാനവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഏത് സംസ്ഥാനമാണ് ഏത് സംസ്ഥാനത്തിന്റെ അതിർത്തി എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഗ്രാഫ് ലഭിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വീണ്ടും വരയ്ക്കാം എന്നാൽ അർത്ഥത്തിൽ കണക്ഷനുകൾ കൂടുതൽ വ്യക്തമാക്കുന്നതിനായി ഞങ്ങൾക്ക് ഇത്തരം തിരക്കേറിയ ഭാഗങ്ങൾ വികസിപ്പിക്കാൻ കഴിയും മാത്രമല്ല ഈ പരിഷ്ക്കരിച്ച ഗ്രാഫിനൊപ്പം പ്രവർത്തിക്കാനും ഈ പരിഷ്ക്കരിച്ച ഗ്രാഫിനുള്ള പരിഹാരം യഥാർത്ഥ ഗ്രാഫിനുള്ള പരിഹാരത്തിന് തുല്യമാണ് പ്രശ്നം മാറ്റം അതിനാൽ ഒരു പ്രശ്നത്തെ മോഡലിംഗ് ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് പ്രശ്നത്തിന്റെ അവശ്യ ഭാഗങ്ങൾ സൂക്ഷിക്കുക അനിവാര്യമായ ഭാഗം വലിച്ചെറിയുക അതിലൂടെ യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും അതിനാൽ ഒരു ഗ്രാഫായി എളുപ്പത്തിൽ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന മറ്റൊരു പ്രശ്നം ഒരു എയർലൈൻ റൂട്ടിംഗാണ് അതിനാൽ ഞങ്ങൾക്ക് എയർലൈൻ റൂട്ടിംഗ് ഉള്ളപ്പോൾ പ്രതിനിധീകരിക്കുന്ന ഒരു എയർലൈനിന്റെ റൂട്ടുകളും അവയ്ക്കിടയിലുള്ള ഉദ്ധരണികളും അമ്പുകളും ഉപയോഗിച്ച് ഒരു ദിശയിലുള്ള ഫ്ലൈറ്റുകളെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഫോർമാറ്റ് നൽകിയാൽ നിങ്ങൾക്ക് ചോദിക്കാം കണക്റ്റിവിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം പിന്നെ ഞാൻ വിമാനക്കമ്പനികൾ മാറ്റാതെ ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നു അതിനാൽ ഇത് വീണ്ടും ഒരു പ്രശ്നമാണ് അവിടെ നമുക്ക് കണക്റ്റിവിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും യഥാർത്ഥ ഗ്രാഫ് വലിച്ചെറിയാനും കഴിയും ഇത് യഥാർത്ഥ മാപ്പിനെ ഞങ്ങൾക്ക് ശരിക്കും ബാധകമാക്കുന്നില്ല ഇത് എത്ര ദൂരെയാണ് എന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല സമയം കാണുക 08 റഫർ ചെയ്യുക 14 നഗരങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്നിടത്താണ് ഒരു ഫ്ലൈറ്റ് വഴി ഏത് നഗരവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നുവെന്നും ജോഡി നഗരങ്ങൾക്കിടയിൽ എനിക്ക് എങ്ങനെയുള്ള റൂട്ടുകൾ കണ്ടെത്താൻ കഴിയുമെന്നതും മാത്രമാണ് ഞങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുള്ളത് അതിനാൽ ഗ്രാഫ് ദ്യോഗികമായി ഒരു ഗ്രാഫ് രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു ഇത് സാധാരണയായി V എന്ന് എഴുതുന്ന ഒരു കൂട്ടം ലംബങ്ങളോ നോഡുകളോ ആണ് കൂടാതെ ജോഡി വെർട്ടീസുകളുള്ള ഒരു കൂട്ടം അരികുകളും ഉണ്ട് അതിനാൽ ഓരോ അരികിലും ജോഡി വി കോമ വി ജോഡിയാണ് ഇപ്പോൾ മാപ്പിനായി ഞങ്ങളുടെ പക്കലുള്ള ഒരു ഗ്രാഫ് നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ ഞങ്ങൾ അത് കളറിംഗ് ചെയ്യുന്നുവെങ്കിൽ v പ്രൈമിന് മുമ്പാണോ അതോ വി പ്രൈമിന് മുമ്പാണോ എന്ന് ഞങ്ങൾ വേർതിരിച്ചറിയുന്നില്ല എപ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ പൊതുവായ ഒരു പങ്കുവയ്ക്കുന്നുവെന്ന് ഞങ്ങൾ പറയുന്നു അതിർത്തി അവിടെ ഞങ്ങൾ ഏത് ക്രമത്തെ പരാമർശിക്കുന്നു എന്നത് പ്രശ്നമല്ല അതിനാൽ v നും v പ്രൈമിനും ഇടയിൽ ഒരു എഡ്ജ് ഉണ്ട് v പ്രൈമിനും v നും ഇടയിൽ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനാൽ ഏതെങ്കിലും ജോഡി ലംബങ്ങൾക്കിടയിൽ ഒരു എഡ്ജ് മാത്രമേയുള്ളൂ മറുവശത്ത് ഞങ്ങൾക്ക് ദിശകളുള്ള എയർലൈൻ ഗ്രാഫിൽ ഞങ്ങൾക്ക് ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരിക്കാം പക്ഷേ മോശമല്ല ഞങ്ങൾക്ക് ഈ ത്രികോണാകൃതിയിലുള്ള കാര്യങ്ങളുണ്ട് അവിടെ നമുക്ക് ഒരു നഗരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാം അതിനാൽ നിങ്ങൾക്ക് ഈ ദിശയിലേക്ക് നേരിട്ട് മടങ്ങാൻ കഴിയില്ലെന്ന് ഇതിനർത്ഥമില്ല അതിനാൽ ഇത് സംവിധാനം ചെയ്ത ഗ്രാഫ് അല്ല അതിനാൽ സംവിധാനം ചെയ്ത ഗ്രാഫിൽ നിങ്ങൾക്ക് v മുതൽ v പ്രൈം വരെ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ v പ്രൈമിൽ നിന്ന് v ലേക്ക് ഒരു എഡ്ജ് ഉണ്ടെന്ന് ഞങ്ങൾ ഉറപ്പുനൽകുന്നില്ല ഞങ്ങൾ കണ്ടതുപോലെ വരച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ തരത്തിലുള്ള ഗ്രാഫുകളെ ചിത്രമായി എളുപ്പത്തിൽ വിവരിക്കാൻ കഴിയും നോഡുകളും അരികുകളെ വരികളായി ബന്ധിപ്പിക്കുന്നു അതിനാൽ ഒന്നുകിൽ അത് വഴിതിരിച്ചുവിട്ടു അല്ലെങ്കിൽ തിരുത്തൽ സൂചിപ്പിക്കുന്നതിന് അമ്പടയാളങ്ങൾ ഉപയോഗിച്ച് വരകൾ വരയ്ക്കുന്ന ഗ്രാഫ് ഞങ്ങൾ സംവിധാനം ചെയ്യാമായിരുന്നു അതിനാൽ ഗ്രാഫ് കളറിംഗ് പ്രശ്നം ഒരു വഴിതിരിച്ചുവിടാത്ത ഗ്രാഫിലെ ഒരു പ്രശ്നമാണ് കൂടാതെ ഒരു കളറിംഗ് സി കണ്ടെത്തുക എന്നതാണ് പ്രശ്നം എന്ന് നമുക്ക് can ദ്യോഗികമായി പറയാൻ കഴിയും കളറിംഗ് സി എന്നത് ഓരോ വെർട്ടെക്സ് വാ കളർ സി യുടെയും ഗ്രാഫിന്റെ കാര്യത്തിലും നിർണ്ണയിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഞങ്ങളുടെ എഡ്ജ് സെറ്റിൽ ഒരു എഡ്ജ് v v പ്രൈം ഉള്ളപ്പോൾ v യുടെ സി വി സമയത്തിന്റെ സിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം നിയമപരമായ കളറിംഗ് എന്നാണ് ഇതിനർത്ഥം അതിനാൽ നമുക്ക് ഇപ്പോൾ ഈ ഗ്രാഫിനെ ഒരു ഗണിതശാസ്ത്ര വസ്തുവായി കണക്കാക്കാം കൂടാതെ പരിഹരിക്കേണ്ട പ്രശ്നത്തെ പൂർണ്ണമായും വസ്തുനിഷ്ഠമായ രീതിയിൽ ഒരു ഗണിതശാസ്ത്ര പ്രശ്നമായി ലംബങ്ങളുടെയും അരികുകളുടെയും അടിസ്ഥാനത്തിൽ വിവരിക്കാം അതുപോലെ ഗണിതശാസ്ത്രത്തിൽ ഒരു റൂട്ട് കണ്ടെത്തുന്നതിനുള്ള പ്രശ്നം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയും തുടക്കത്തിൽ ഞങ്ങളുടെ പ്രശ്നം ഒരു സംവിധാനം ചെയ്ത ഗ്രാഫാണ് അതിനുശേഷം അനുബന്ധമായ ലംബങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ നോഡുകൾ കണ്ടെത്താൻ താൽപ്പര്യപ്പെടുന്ന നഗരങ്ങൾ അതിനാൽ എനിക്ക് ഒരു v 0 ന്യൂഡൽഹിയെ പ്രതിനിധീകരിക്കുന്നു v 5 തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്നു ഞങ്ങളുടെ ലക്ഷ്യം v 0 മുതൽ v 5 വരെ ന്യൂഡൽഹി മുതൽ തിരുവനന്തപുരം വരെ റൂട്ട് കണ്ടെത്തുകയായിരുന്നു അതിനാൽ അത്തരമൊരു റൂട്ടിനെ ഒരു പാത്ത് എന്ന് വിശേഷിപ്പിക്കാം അതിനാൽ പാത്ത് അരികുകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ലംബങ്ങളുടെ ഒരു ശ്രേണി മാത്രമാണ് അതിനാൽ നിങ്ങൾ ആരംഭിക്കാൻ താൽപ്പര്യപ്പെടുന്ന ആദ്യ ശീർഷകം v 0 ആണ് അവസാന വെർടെക്സ് vk ആണ് ഞങ്ങൾ അവസാനിപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്നതും vi vi പ്ലസ് 1 ഭാഗത്തുള്ള ഓരോ ജോഡി വെർട്ടീസുകളും ഒരു ഫ്ലൈറ്റ് ആഗ്രയിലെ ഒരു വശം ഇപ്പോൾ ഈ പ്രശ്നത്തിന് അർത്ഥമുണ്ടാക്കാൻ ഒരു ഗ്രാഫ് നിർദ്ദേശിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഒരേ ഗ്രാഫ് എടുക്കാം അവ പരോക്ഷമല്ലെന്ന് ഞങ്ങൾ അനുമാനിക്കാം അതാണ് എയർലൈൻ യഥാർത്ഥത്തിൽ എല്ലാ ജോഡി നഗരങ്ങളെയും രണ്ട് ദിശകളിലേക്കും സേവിക്കുന്നത് പ്രശ്നം ഇപ്പോഴും അർത്ഥമാക്കുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ഒരു വഴിതിരിച്ചുവിടാത്ത ഗ്രാഫ് ഉണ്ട് എന്നാൽ v 0 v 1 ഒരു എഡ്ജ് ആണെന്ന് ഞങ്ങൾ പറയുന്നു അതായത് v 0 v 1 ഉം ഒരു എഡ്ജ് ആണ് നമുക്ക് പിന്നിലേക്കും പിന്നിലേക്കും പോകാം അതേ ചോദ്യം ഇപ്പോൾ നമുക്ക് ലംബങ്ങളുടെ ക്രമം കണ്ടെത്താൻ കഴിയുമോ നമ്മൾ v 0 എന്ന് ആരംഭിച്ച് v 5 ലേക്ക് പോകുന്നു അതായത് ഈ പാതയിലെ ഓരോ ജോഡിയും ഓരോ v i v i പ്ലസ് 1 ഉം E ലെ ഒരു അരികാണ്